വൈദ്യുത ധ്രുവീകരണവും ബന്ധിത ചാർജുകളും II പോളറൈസേഷൻ ഡെൻസിറ്റിയും അതുകാരണം ഉണ്ടായ സഫല ഡൈപോൾ മൊമെന്റും ഉള്ള ഒരു വസ്തുവിനെ അല്ലെങ്കിൽ മാധ്യമത്തെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിച്ചത് മാത്രമല്ല ഈ ഡൈപോൾ മൊമെന്റ് സർഫേസ് ചാർജ് അഥവാ ഉപരിതല ചാർജിനോ ബൽക്ക് അഥവാ വോളിയം ചാർജിനോ കാരണമാകുന്നെന്ന് ഭൌതികശാസ്ത്രപരമായി വിശകലനം ചെയ്തതിന്റെ ഫലമായി നമ്മൾ കണ്ടുകഴിഞ്ഞു ഈ ചാർജുകളുടെ സ്വഭാവം അവ കാരണം ഡൈഇലൿട്രിക് ലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതുകാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇവയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഈ ചാർജുകളുടെ സ്വഭാവം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായും ഫീൽഡിലും പൊട്ടൻഷ്യലിലും അവയുണ്ടാക്കുന്ന വ്യതിയാനങ്ങളിൽ കൂടിയാണ് നമുക്കിവിടെ പോളറൈസേഷൻ അഥവാ ധ്രുവീകരണം സംഭവിച്ചിരിക്കുന്ന ഒരു വസ്തു എടുക്കാം ഇതിന്റെ പോളറൈസേഷൻ ഡെൻസിറ്റി P എന്നിരിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു ഇത് കാരണമുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ചാർജ് അല്ലെങ്കിൽ ഡൈപോൾ ഉള്ള മുഴുവൻ വോളിയത്തിലേക്കുമായി ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ഇത് പൂർണമായി മനസിലാക്കാനായി നമുക്ക് r r ʹ നെ ആസ്പദമാക്കി ഗ്രേഡിയൻറ് എടുക്കാം ഇത് ഞാൻ നിങ്ങൾക്കുള്ള അസൈന്മെന്റ് ആയി തരുന്നു ഇതിന്റെ റിസൾട്ട് അതുകൊണ്ടു തന്നെ ഇവിടെ ഇക്വേഷനിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്തിന് പകരം ഇപ്പോൾ കിട്ടിയ റിസൾട്ട് ഉപയോഗിക്കാം അതായത് പൊട്ടൻഷ്യൽ ഇതിൽ നമുക്ക് ചെറിയ മാറ്റം വരുത്തിനോക്കാം നമുക്കറിയാം ഏകമാനതലത്തിലും ത്രിമാനതലത്തിലും ഉപയോഗിക്കാവുന്ന ഈ വെക്റ്റർ ഐഡന്റിറ്റി നിങ്ങൾക്ക് പരിചിതവും എളുപ്പത്തിൽ മനസിലാക്കാവുന്നതുമാണ് ഇത് സബ്സ്റ്റിട്യൂട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഇവിടെ നമ്മൾ ഒരു പോളറൈസ് ചെയ്യപ്പെട്ട അഥവാ ധ്രുവീകരണം സംഭവിച്ച ഒരു വസ്തുവാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കിട്ടിയ ഇക്വേഷനിലെ ഒന്നാമത്തെ പദത്തിൽ ഡൈവേർജൻസ് തിയറം ഉപയോഗിച്ചാൽ nʹ എന്നത് വോളിയത്തിൽ നിന്നും പുറത്തേക്കുള്ള ദിശയിലേക്കുള്ള അതായത് സർഫേസ് ഏരിയയുടെ ദിശയിലേക്കുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് ഈ ഇക്വേഷനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം ഇതിനോട് സമാനമായ മറ്റൊരു വോളിയത്തിൽ സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎 യും ബൾക്ക് ചാർജ് ഡെൻസിറ്റി അഥവാ വോളിയം ചാർജ് ഡെൻസിറ്റി 𝜌 യും ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഇതിൽ നിന്നും എന്താണ് മനസിലാകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് സ്വഭാവം അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണക്കിലെടുക്കുമ്പോൾ സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎 എന്നത് Prʹ n ന് തുല്യമാണ് അതുപോലെതന്നെ വോളിയം ചാർജ് ഡെൻസിറ്റി 𝜌 എന്നത് ʹ Prʹ ന് തുല്യമാണ് അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പോളറൈസേഷൻ ഡെൻസിറ്റി P ആയിട്ടുള്ള ഒരു വസ്തുവിന്റെ സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎 എന്നത് P n ന് തുല്യമാണ് ഈ ചാർജുകൾക്ക് സ്വതന്ത്രമായി ചലിക്കാൻ സാധ്യമല്ലാത്തതിനാൽ അഥവാ ബൌണ്ട് ചാർജ് അല്ലെങ്കിൽ ബന്ധിത ചാർജുകളായതിനാൽ 𝜎 എന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ബന്ധിത ചാർജുകൾ കാരണമുള്ളതാണ് അപ്പോൾ നമുക്ക് ഇപ്രകാരം എഴുതാം അതുപോലെ തന്നെ വോളിയം ചാർജ് ഡെൻസിറ്റി 𝜌 എന്നതും യഥാർത്ഥത്തിൽ ഇവിടെ ബന്ധിത ചാർജുകൾ കാരണമുള്ളതാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആശയത്തോട് ചേർന്ന് വരുന്നു അവിടെ നമ്മൾ പറഞ്ഞിരുന്നു പോളറൈസേഷൻ ഒരു വസ്തുവിൽ സർഫേസ് ചാർജും വോളിയം ചാർജും ഉണ്ടാക്കുന്നുവെന്ന് പോളറൈസേഷൻ ഡെൻസിറ്റി P ഇവിടെ കോൺസ്റ്റന്റ് അല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഡൈവേർജൻസ് ബന്ധിത ചാർജുകൾ കാരണമുള്ള വോളിയം ചാർജ് ഡെൻസിറ്റി ഉണ്ടാക്കുന്നു എന്നാൽ P കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റി ഉണ്ടാവില്ല അപ്പോൾ സർഫേസ് ചാർജ് ഡെൻസിറ്റി മാത്രമായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആസ്പദമാക്കി ചിന്തിക്കുമ്പോൾ പോളറൈസേഷൻ P എന്നത് ബൌണ്ട് ചാർജിനെ പ്രതിനിധാനം ചെയ്യുന്നു അതായത് സർഫേസ് ചാർജിനെയും വോളിയം ചാർജിനെയും കാണിക്കുന്നു അപ്പോൾ പൊട്ടൻഷ്യലിന്റെ ഗ്രേഡിയന്റ് ആയ ഇലക്ട്രിക്ക് ഫീൽഡും ഇത്തരം ബൌണ്ട് ചാർജുകൾ കാരണം ഉണ്ടാവുന്നതായി കണക്കാക്കാം അടുത്തതായി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഞാനിവിടെ h ഉയരവും R റേഡിയസുമായുള്ള ഒരു സിലിണ്ടർ സങ്കല്പിക്കാം R h ആണെന്നിരിക്കട്ടെ അപ്പോൾ ഇത് ഒരു വളരെ കനം കുറഞ്ഞ ഡിസ്ക്കിനു തുല്യമാണ് ഇതിൽ എല്ലായിടത്തും മുകളിലേക്കുള്ള ദിശയിൽ ഒരേ പോളറൈസേഷൻ P ഉണ്ടെന്നിരിക്കട്ടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഫീൽഡ് ഇവയെ അടിസ്ഥാനമാക്കി ഇത് ഒരു സർഫേസ് ബൌണ്ട് ചാർജ് ഡെൻസിറ്റിയ്ക്ക് തുല്യമാണ് ഇവിടെ P കോൺസ്റ്റന്റ് ആയതിനാൽ വോളിയം ബൌണ്ട് ചാർജ് ഡെൻസിറ്റി ഉണ്ടായിരിക്കുകയില്ല അഥവാ ഡിസ്കിനുള്ളിൽ ചാർജ് ഡെൻസിറ്റി ഉണ്ടായിരിക്കുകയില്ല ഡിസ്കിന്റെ മുകൾ വശത്ത് n പുറത്തേക്കുള്ള ദിശയിൽ അതായത് P യുടെ ദിശയിലായിരിക്കും അപ്പോൾ P n ചെയ്യുമ്പോൾ ഡിസ്കിന്റെ മുകൾവശത്ത് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു അതായത് P n P എന്നാൽ താഴെ വശത്ത് n ഉം P യും വിപരീത ദിശയിലാണ് അതുകൊണ്ടു തന്നെ P n ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു അതായത് P n P അപ്പോൾ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഡിസ്ക് പോസിറ്റീവും നെഗറ്റീവും സർഫേസ് ചാർജുള്ള രണ്ടു വലിയ പ്ലേറ്റുകൾക്ക് സമാനമാണ് ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് പോളറൈസേഷന്റെ എതിർ ദിശയിലായിരിക്കും ഇലക്ട്രിക്ക് ഫീൽഡ് ആയിരിക്കും അടുത്തതായി നമുക്ക് രണ്ടാമത്തെ ഉദാഹരണം എടുക്കാം ഇവിടെ നീളം 'l ' നെ അപേക്ഷിച്ച് വളരെ കുറവ് റേഡിയസ് 'a' ഉള്ള നേരിയ കമ്പി ആണ് എടുത്തിരിക്കുന്നത് ഇതിനുള്ളിൽ പോളറൈസേഷൻ ഡെൻസിറ്റി P ഉണ്ടെന്നിരിക്കട്ടെ നീളത്തെ അപേക്ഷിച്ച് റേഡിയസ് കുറവായതിനാൽ ഈ കമ്പിയുടെ ഉള്ളിൽ പോളറൈസേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും അതുകൊണ്ടുതന്നെ വോളിയം ചാർജ് ഡെൻസിറ്റി ഉണ്ടാവില്ല മുകൾവശവും താഴെവശവും പോളറൈസേഷൻ കാരണം യഥാക്രമം P P എന്നിങ്ങനെ സർഫേസ് ചാർജ് ഡെൻസിറ്റി ഉണ്ടായിരിക്കും നീളത്തിനെ അപേക്ഷിച്ച് വശങ്ങളുടെ ഏരിയ വളരെ കുറവായതിനാൽ ഇത് Pa 2 Pa 2 എന്നിങ്ങനെ രണ്ടു ചാർജുകൾ l അകലത്തിൽ ഉള്ളതുപോലെ കണക്കാക്കാം ഇതുകാരണമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് രേഖകൾ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് വരുന്നതായി കണക്കാക്കാം മൂന്നാമത്തെ ഉദാഹരണമായി നമുക്ക് ഒരു ഗോളാകൃതിയിലുള്ള ഡൈഇലക്ട്രിക്ക് വസ്തു എടുക്കാം ഒരു ഗോളത്തിന്റെ യൂണിറ്റ് നോർമൽ വെക്റ്റർ n എപ്പോഴും സ്ഫറിക്കൽ പോളാർ കോർഡിനേറ്റിൽ r നോട് തുല്യമായിരിക്കും അതുപോലെ പോളറൈസേഷൻ P P z അപ്പോൾ ബൌണ്ട് അഥവാ ബന്ധിത ചാർജ് കാരണമുള്ള സർഫേസ് ചാർജ് ഡെൻസിറ്റി കാരണം z r ആണെന്ന് സ്ഫറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് വീശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ 𝜎 ഗോളത്തിന്റെ മുകളിലത്തെ പകുതിയിൽ പോസിറ്റീവ് ആയിരിക്കും കാരണം അവിടെ പോസിറ്റീവ് ആയിരിക്കും ഗോളത്തിന്റെ പോൾ അഥവാ ധ്രുവത്തിനും നിന്നും ഇക്യുവെറ്റർ അഥവാ മധ്യരേഖയിലേക്ക് വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വന്ന് സീറോ ആയിത്തീരുന്നു അവിടെനിന്നും എതിർ ധ്രുവത്തിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും മാറുന്നതിനനുസരിച്ച് P യും മാറുന്നു അടുത്തതായി ബന്ധിത ചാർജ് കാരണമുള്ള ബൾക്ക് ചാർജ് ഡെൻസിറ്റി അഥവാ വോളിയം ചാർജ് ഡെൻസിറ്റി 𝜌 എത്രയെന്നു നോക്കാം ഇവിടെ P കോൺസ്റ്റന്റ് ആയതുകൊണ്ട് P യുടെ ഡൈവേർജൻസ് സീറോ ആയിരിക്കും അപ്പോൾ 𝜌 0 എന്നർത്ഥം അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവസ്ഥ നേരത്തെ നമ്മൾ ചെയ്ത ഒരു പ്രോബ്ളത്തിനു സമാനമാണ് അവിടെ നമുക്ക് കിട്ടിയത് 0 എന്നായിരുന്നു ഇതുകാരണം അവിടെ ഗോളത്തിന്റെ ഉള്ളിൽ ഇതിനു വിപരീത ദിശയിൽ ഒരു ഫീൽഡ് E ഉണ്ടാകുന്നു ഗോളത്തിനു പുറത്ത് പരസ്പരം കുറച്ച് അകലത്തിൽ വേർതിരിക്കപ്പെട്ട പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമുള്ള രണ്ടു ഗോളങ്ങളുടെ ഫീൽഡ് ആയി അനുഭവപ്പെടുന്നു അതായത് ഒരു ഡൈപോൾ ഫീൽഡ് ആയി അനുഭപ്പെടുന്നു ഈ ഭാഗം ഞാൻ അവിടെ വിസ്തരിച്ച് ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് കാണാം ഇത് വിപരീത ചാർജുകളുള്ള രണ്ടു ഗോളങ്ങളായി പ്രവർത്തിക്കുന്നു എന്ന് അതായത് ഗോളത്തിനു ബാഹ്യഭാഗത്ത് ഇത് ഒരു ഡൈപോൾ ആയി അനുഭവപ്പെടുന്നു നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതും അതിനോട് സമാനമാണ് അപ്പോൾ ഇവിടെയും അതിനോട് സമാനമായ ഫീൽഡ് ആണ് നമുക്ക് കിട്ടുന്നത് അതായത് ഗോളത്തിനുള്ളിൽ ഒരു കോൺസ്റ്റന്റ് ഫീൽഡ് E ഉണ്ടാവുന്നു ഈ ഫീൽഡ് ആയിരിക്കും ഗോളത്തിനു പുറത്ത് ഒരു ഡൈപോൾ ഫീൽഡ് അനുഭവപ്പെടുന്നു അതായത് ഒരു ഡൈപോൾ മൊമെന്റ് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഡൈഇലൿട്രിക്കിന്റെ പോളറൈസേഷൻ എങ്ങനെ അതിന്റെ ചാർജ് വിന്യാസവുമായി ബന്ധപ്പെടുന്നുവെന്നാണ് പോളറൈസേഷന്റെ ഡൈവേർജൻസ് എടുത്താൽ ബൾക്ക് ചാർജ് വിന്യാസം അഥവാ വോളിയം ചാർജ് വിന്യാസവും യൂണിറ്റ് വെക്റ്റർ n മായുള്ള n എന്നത് ഡൈഇലൿട്രിക്കിൽ നിന്നും പുറത്തേക്കുള്ള ദിശയിലേക്കുള്ള ലംബം ആണ് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ സർഫേസ് ചാർജ് ഡെൻസിറ്റിയും ലഭിക്കുന്നു എന്ന് നമ്മൾ കണ്ടു ഇതിൽ നിന്നും നമുക്ക് പൊട്ടൻഷ്യലും ഫീൽഡും കാണാവുന്നതാണ്